ഒരു റെസിസ്റ്ററിലുള്ള പവറും ഊർജ്ജവും പൊതുവായി നമ്മൾ ഒരു രണ്ടു ടെർമിനൽ ഘടകത്തിലെ പവറും ഊർജ്ജവും നിർവചിച്ചതാണ് ഇനി ഞാൻ അത് നമുക്ക് അറിയാവുന്ന ഘടകങ്ങളിൽ ഓരോന്നോരോന്നായി പ്രയോഗിക്കും എന്നിട്ട് അതിന്റെ ഗുണവിശേഷങ്ങൾ പഠിക്കാം ആദ്യം നമുക്ക് റെസിസ്റ്റർ പരിഗണിക്കാം പതിവുപോലെ പാസ്സീവ് സൈൻകൺവെൻഷനോടുകൂടി വോൾട്ടെജ്ജും കറണ്ടും ഏതൊരു രണ്ടു ടെർമിനൽ ഘടകം ആയിക്കോട്ടെ P തീർച്ചയായും V I ആണ് ഇതോരോന്നും സമയം ആശ്രയിച്ചിട്ടും ആകാം പക്ഷെ ഇപ്പോൾ ഒരു റെസിസ്റ്ററിന്റെ വോൾടേജ് കറണ്ട് × റെസിസ്റ്റൻസ് ആണ് അപ്പോൾ ഈ പ്രത്യേക ബന്ധം റെസിസ്റ്ററിനും ഉണ്ട് അത് I R × I എന്ന് എഴുതാം അതായത് ഇത് വോൾടേജ് ഇത് കറണ്ട് അതായത് I2R മറ്റൊരു വിധത്തിൽ ഇതിനെ V × V ബൈ R എന്ന് എഴുതാം അതായത് ഇത് വോൾടേജ് ഇത് കറണ്ട് ഇത് V സ്ക്വയർ R ആണ് ഇനി വോൾട്ടേജോ കറണ്ടൊ സമയത്തെ ആശ്രയിച്ചു ആണെങ്കിൽ പവർ സമയത്തിന് അനുസരിച്ചു മാറിക്കൊണ്ടിരിക്കും പക്ഷെ പദപ്രയോഗം ഒന്നായിരിക്കും ഇതാണ് റെസിസ്റ്ററിലേക്ക് ഉള്ള പവർ ഇത് V സ്ക്വയർ ഡിവൈഡഡ് ബൈ R എന്ന് എഴുതാം അപ്പോൾ ഇതാണ് ഒരു റെസിസ്റ്ററിലേക്ക് കൊടുത്തിരിക്കുന്ന പവറിന്റെ പദപ്രയോഗം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കറണ്ടിന്റെയോ വോൾട്ടേജിന്റെയോ സ്ക്വയർ ഉൾപ്പെടുന്നത് കൊണ്ട് വോൾട്ടേജ്ജും കറണ്ടും യഥാർത്ഥവസ്തുക്കൾ ആണ് റെസിസ്റ്ററിലേക്ക് കൊടുക്കുന്ന പവർ എപ്പോഴും പോസിറ്റീവ് ആണ് റെസിസ്റ്റർ എപ്പോഴും പവർ വലിച്ചെടുക്കും ഇത് വളരെ എളുപ്പത്തിൽ കാണാം പവർ കറണ്ടിന്റെ സ്ക്വയറിനോടോ വോൾട്ടേജിജിന്റെ സ്ക്വയറിനോടോ ആനുപാതികം ആണെന്ന പദപ്രയോഗത്തിൽ നിന്ന് റെസിസ്റ്റർ എപ്പോഴും പവർ വലിച്ചെടുക്കും ഇത് എവിടെ പോകുന്നു ഇത് താപം ആയി പോകുന്നു അപ്പോൾ റെസിസ്റ്ററിലൂടെ കറണ്ടിനെ ഒഴുക്കിയാൽ അത് താപം ആകും അതിനാൽ അത് പവർ വലിച്ചെടുക്കുന്നു അത് ശെരിക്കും പുറന്തള്ളുകയാണ് ചെയ്യുന്നത് ഈ പവർ റെസിസ്റ്ററിനെ ചൂടാക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക്കൽ സ്റ്റവ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ കോയിലിലൂടെ കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ അത് ശെരിക്കും ചെറുത്തു നിൽക്കുവാൻ കഴിവുള്ളതാണെങ്കിൽ റെസിസ്റ്റൻസ് മൂല്യം ക്രമീകരിച്ചു പവർ ഇതിനെ ചൂടാക്കി ഒരു പരിധി വരെ അതായത് നമുക്ക് ഉപയോഗിക്കാവുന്ന തലത്തിൽ അതായതു പാചകത്തിന് ഉതകുന്ന തരത്തിൽ ക്രമീകരിക്കുന്നു റെസിസ്റ്ററിലേക്ക് കൊടുക്കുന്ന ഊർജ്ജം കണക്കാക്കുക ഒരു സമയ അകത്തിലേക്ക് കാര്യമാക്കണ്ട t 1 മുതൽ t 2 വരെ അത് I സ്ക്വയർ R dt ആകും അല്ലെങ്കിൽ t 1 മുതൽ t 2 V വരെ സ്ക്വയർ ബൈ R സമയത്തിന് അനുസരിച്ചു ഇതും പൂജ്യം ആണ് കാരണം പവർ തന്നെ എപ്പോഴും പൂജ്യം ആണ് അപ്പോൾ ഒരു റെസിസ്റ്റർ എപ്പോഴും ഊർജ്ജം വലിച്ചെടുക്കുന്നു അതിനു ഒരു ഊർജ്ജവും കൊടുക്കാൻ സാധിക്കുകയില്ല ഒരിക്കലും അപ്പോൾ ഒരു സാധനം ഊർജ്ജം വലിച്ചെടുക്കുന്നത് എന്നാൽ ഊർജ്ജം കൊടുക്കാൻ സാധിക്കാത്തത് അതിനു ഊർജ്ജ സ്രോതസ്സ് ആയിട്ട് പ്രവൃത്തിക്കുവാൻ സാധിക്കുകയില്ല ഇങ്ങനത്തെ ഒരു ഘടകത്തിനെ വിളിക്കുന്നത് പാസ്സീവ് ഘടകം എന്നാണു അതിനാൽ പാസ്സീവ് ഘടകം ഒന്നെങ്കിൽ പവർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം ഇത് സ്വയംസൂചിപ്പിക്കുക അത് ഊർജ്ജം വലിച്ചെടുക്കും എന്നാണ് അതിനാൽ റെസിസ്റ്റർ പവർ വലിച്ചെടുക്കുക മാത്രമേ ഉള്ളു തത്ഫലമായിട്ടു മാത്രമേ ഊർജ്ജം വലിച്ചെടുക്കുകയുള്ളു ഊർജ്ജം ഉണ്ടാക്കുവാൻ അതിനു സാധിക്കുകയില്ല ബാക്കി സർക്യൂട്ടിലും ഇവിടെ നമ്മൾ പോസിറ്റീവ് മൂല്യം ഉള്ള റെസിസ്റ്ററുകളെ ആണ് കണക്കാക്കുന്നത് ഭൌതികമായ റെസിസ്റ്ററുകൾക്ക് എപ്പോഴും പോസിറ്റീവ് മൂല്യം ആയിരിക്കും ഇവിടെ എനിക്ക് സൂചിപ്പിക്കുവാൻ ഉള്ളത് നമ്മൾ കരുതുന്നത് 0 ത്തേക്കാളും കൂടുതൽ ആണ് അതിനാൽ ഇങ്ങനെ ഒരു ഘടകം പാസ്സീവ് ഘടകം എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് ഈ ചിത്രത്തിലും കാണാം ഞാൻ I V കാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക ആണെങ്കിൽ ഇത് ഞാൻ നേരത്തെ ചെയ്തതാണ് റെസിസ്റ്റൻസ് ചർച്ച ചെയ്യുന്ന സമയത്തു ഇപ്പോൾ റെസിസ്റ്ററിന്റെ മൂല്യം എന്തുമാകട്ടെ വളവ് ഇപ്പോഴും നേരെ ആണ് ഒരു പോസിറ്റീവ് സ്ലോപ്പ് ആയിട്ട് വീണ്ടും ഞാൻ റെസിസ്റ്റൻസ് പൂജ്യത്തെക്കാളും കൂടുതലായി കണക്കാക്കുന്നു ഇവിടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് കണക്കാക്കുന്നില്ല ഇവിടെ ഭൌതികമായ റെസിസ്റ്ററുകൾ എടുക്കുന്നു അവയ്ക്കു പോസിറ്റീവ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത് അതിനാൽ ഇപ്പോൾ ഒരു നേരെയുള്ള വരയുടെ കാരക്ടറിസ്റ്റിക്സ് ഒറിജിനിലൂടെ പോകുന്നത് എന്നതിന്റെ അർത്ഥം അത് ആദ്യത്തേതും മൂന്നാമതെത്തും ആയ വൃത്തപാദത്തിൽ കിടക്കുന്നു ആദ്യത്തെ വൃത്തപാദത്തിൽ V യും I യും പോസിറ്റീവ് ആണ് ഗുണനഫലം പോസിറ്റീവ് ആണ് അതിന്റെ അർത്ഥം പവർ പൂജ്യത്തെക്കാളും കൂടുതൽ ആണെന്നാണ് നമ്മൾ നിർവചിച്ചതു പോലെ നമ്മൾ നിർവചിച്ച പവർ റെസിസ്റ്ററിലേക്ക് കൊടുത്തേക്കുന്ന ഊർജ്ജം ആണ് ഘടകത്തിലേക്ക് കൊടുത്തേക്കുന്ന പവർ ഇതാണ് പാസ്സീവ് സൈൻ കൺവെൻഷന്റെ പ്രാധാന്യം പാസ്സീവ് സൈൻ കൺവെൻഷൻ എങ്ങനെ ആണെന്ന് വെച്ചാൽ വോൾട്ടേജ്ജും കറണ്ടും പാസ്സീവ് സൈൻ കൺവെൻഷൻ അനുസരിച്ചു എടുത്താൽ എന്നിട്ട് ഗുണിച്ചാൽ പരിണതഫലം പോസിറ്റീവ് ആയിരിക്കും ഘടകം പവർ വലിച്ചെടുത്താൽ ഇനി ആദ്യത്തെ വൃത്തപാദത്തിൽ വോൾട്ടേജ്ജും കറണ്ടും പോസിറ്റിവ് ആണ് അതിനാൽ പവർ പൂജ്യത്തെക്കാളും കൂടുതൽ ആണ് സ്പഷ്ടമായി ഘടകം പവർ വലിച്ചെടുക്കുന്നു ഇനി മൂന്നാമത്തെ വൃത്തപാദത്തിൽ വോൾടേജ് നെഗറ്റീവ് ആണ് കറണ്ടും നെഗറ്റീവ് ആണ് പക്ഷെ V × I പോസിറ്റീവ് ആയിരിക്കും അതിന്റെ അർത്ഥം ഘടകം വീണ്ടും പവർ വലിച്ചെടുക്കുന്നു എന്നാണ് അപ്പോൾ റെസിസ്റ്റർ ആദ്യത്തേതും മൂന്നാമതെത്തും വൃത്തപാദത്തിൽ ആണ് അതിനാൽ പവർ എപ്പോഴും വലിച്ചെടുക്കുന്നു ഇനി നിങ്ങൾക്ക് ഒരു നെഗറ്റിവ്റ റെസിസ്റ്റർ ആണ് ഉള്ളതെങ്കിൽ അത് പവർ കൊടുക്കും കാരണം സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും തീർച്ചയായും അങ്ങനത്തെ ഒരു റെസിസ്റ്റർ ഭൌതികമായി സാഷാത്കരിക്കുവാൻ സാധിക്കുകയില്ല അതിനെ ആക്റ്റീവ് സർക്യൂട്ട് ഉപയോഗിച്ച് സാഷാത്കരിക്കുവാൻ സാധിക്കും അത് ഈ കോഴ്സിന്റെ പരിധിക്കു പുറത്താണ് ഇനി ഇവിടെ ഞാൻ പൊതുവാക്കി പറയാം റെസിസ്റ്റൻസിനു നേർരേഖ സ്വഭാവം ആണ് ഉള്ളത് ഒരു ഘടകത്തിന് നേർരേഖ സ്വഭാവം ഇല്ലെങ്കിൽ കൂടി അത് ആദ്യത്തേതും മൂന്നാമതേത്തും വൃത്തപാദത്തിൽ നില്കുന്നിടത്തോളം അതായതു അത് ഒറിജിനിൽ കൂടി കടന്നു പോകണം അങ്ങനെ ആണെങ്കിൽ പാസ്സീവ് ഘടകം ആയിരിക്കും കാരണം അത് പവർ വലിച്ചെടുക്കുകയേ ഉള്ളു അതിനാൽ ഞാൻ ഇവിടെ ഒരു ഉദാഹരണം എടുക്കട്ടേ ഈ ഘടകം നിങ്ങളിൽ ചിലർക്ക് സുപരിചിതം ആയിരിക്കും ഡയോഡ് എന്ന് വിളിക്കുന്ന ഒരു സാധനം ഉണ്ട് അതിന്റെ കാരക്ടറിസ്റ്റിക്സ് ഒറിജിനിൽ കൂടി ആണ് കടന്നു പോകുന്നത് അത് ഏകദേശം ഇത് പോലിരിക്കും ഇത് നോൺ ലീനിയർ ആണ് അതിനാൽ ഡയോഡ് ഉള്ള സർക്യൂട്ട് വിശകലനം ചെയ്യാൻ ബുദ്ധിമുട്ട് ആണ് പക്ഷെ ഒരു വസ്തുത ഉള്ളത് എന്താണെന്നു വെച്ചാൽ ആദ്യത്തേതും മൂന്നാമതേത്തും വൃത്തപാദത്തിൽ മാത്രം ഇതിന്റെ കാരക്ടറിസ്റ്റിക്സ് നിൽക്കുന്നതിനാൽ അത് പവറും വലിച്ചെടുക്കും അതിന്റെ അർത്ഥം ഇത് പവർ വലിച്ചെടുക്കുന്നു അതായത് നമ്മൾ പരാമർശിക്കുന്നത് പാസ്സീവ് മോഡ് പ്രവർത്തനം ആണ് കൂടാതെ ആദ്യത്തേതും മൂന്നാമതേത്തും വൃത്തപാദത്തിൽ ഉള്ള ഘടകം പാസ്സീവ് ഘടകം ആണ് ഇനി നിങ്ങൾ രണ്ടാമത്തെയും നാലാമത്തെയും വൃത്തപാദത്തിൽ ആണെങ്കിൽ ഘടകങ്ങൾ കൊടുക്കുന്നത് പവർ ആണ് അതിനാൽ അത് ആക്റ്റീവ് ആണ് പിന്നീട് നമുക്ക് ഘടകങ്ങളായ വോൾടേജ് സ്രോതസ്സും കറണ്ട് സ്രോതസ്സും നോക്കാം ഇവ ഒന്നെങ്കിൽ പവർ കൊടുക്കും അല്ലെങ്കിൽ പവർ വലിച്ചെടുക്കും അപ്പോൾ ഈ ഭാഗത്തു നിന്ന് കുറച്ചു കാര്യങ്ങൾ വ്യക്തമാകണം ആദ്യത്തേത റെസിസ്റ്റർ എപ്പോഴും പവർ വലിച്ചെടുക്കുന്നു അനന്തരഫലമായി അത് ഊർജ്ജവും വലിച്ചെടുക്കുന്നു ഇത് പാസ്സീവ് ഘടകം ആണ് നമ്മൾ ഒരു കാരക്ടറിസ്റ്റിസും ചർച്ച ചെയ്തു കൂടാതെ പാസിവിറ്റി സൂചിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്ക് IV കാരക്ടറിസ്റ്റിക്സ് ഒന്നാമത്തെയും മൂന്നാമത്തെയും വൃത്തപാദത്തിൽ ആണ് ഉള്ളതെങ്കിൽ ഘടകം പാസ്സീവ് ആയിരിക്കും ഇത് രണ്ടാമത്തെയും നാലാമത്തെയും വൃത്തപാദത്തിൽ ആണെങ്കിൽ അത് നെഗറ്റീവ് ആകാം പിന്നീട് നമുക്ക് പാസ്സിവോ ആക്റ്റീവോ ആയ ഘടകങ്ങൾ നോക്കാം അത് പ്രവർത്തിക്കുന്ന വൃത്തപാദം അനുസരിച്ചു അത് പാസ്സിവോ ആക്റ്റീവോ ആകാം പവറിന്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം വാട്ട്സ് ഇലക്ട്രിക്കൽ പവറിനു 1 വാട്ട് 1 വോൾട്ട് × 1 ആംപിയറിനു തുല്യം ആണ് ഊർജ്ജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ് 1 വാട്ട് 1 ജൂൾ പെർ 1 സെക്കന്റിനു തുല്യം ആണ് നമുക്ക് ഒരു ലളിതമായ കേസ് എടുക്കാം നമുക്ക് ഒരു കിലോ ഓം റെസിസ്റ്റർ ഉണ്ട് അതിനു കുറുകെ 2 വോൾട്ടും ഓംസ് ലോ വഴി നമുക്ക് അറിയാം കറണ്ട് 2 വോൾട്ട് ഡിവൈഡഡ് ബൈ 1 കിലോ ഓം അതായത് 2 മില്ലി ആമ്പ് ആണെന്ന് പുറത്തേക്ക് പോകുന്ന പവർ ഈ റെസിസ്റ്ററിനു കുറുകെ രണ്ടു വോൾട്ട് ഉള്ളപ്പോൾ അത് 2 വോൾട്ട് × 2 മില്ലി ആമ്പ് ആണ് അതായതു 4 മില്ലിവാട്ടസ് ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം V സ്ക്വയർ ബൈ R അതായത് 2 വോൾട്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 കിലോ അതായത് 4 x 10 3 വാട്ട്സ് അതായത് 4 മില്ലിവാട്ടസ് തീർച്ചയായും നിങ്ങൾക്ക് അതേ ഉത്തരം തന്നെ കിട്ടും I സ്ക്വയർ R ഉപയോഗിച്ചാൽ അതായത് കറണ്ടിന്റെ സ്ക്വയർ × റെസിസ്റ്റർ നമുക്ക് ഇവിടെ മില്ലി ആമ്പിന്റെ സ്ക്വയർ ഉണ്ട് അപ്പോൾ ഇത് 10 6 ഇത് 10 3 അപ്പോൾ നമുക്ക് വീണ്ടും 4 x 10 3 വാട്ട്സ് ഉണ്ട് അതായത് 4 മില്ലിവാട്ടസ് തീർച്ചയായും ഇതെല്ലം ഒരേ ഉത്തരം തന്നെ തരണം കാരണം ഈ എല്ലാ ഫോർമുലകളും അല്ലെങ്കിൽ ഒരേ കാര്യത്തിന്റെ ഫോർമുല റെസിസ്റ്ററിൽ നിന്ന് പുറത്തേക് വിടുന്ന പവർ ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഈ 2 വോൾട്ട് 500 സെക്കന്റിലേക്ക് റെസിസ്റ്ററിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നു അതിനാൽ ഈ 500 സെക്കന്റിൽ കൊടുക്കുന്ന ഊർജ്ജം 4 മില്ലിവാട്ട് × 500 സെക്കന്റ് സമയം എന്നത് പവർ ആണ് നമ്മൾ ഒരു നിശ്ചിത വോൾടേജ് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പവറിനെ ഗുണിച്ചാൽ മതി അത്രയും സമയത്തിന്റെ ഇടവേള വെച്ചിട്ട് വോൾടേജ് സമയത്തിന് അനുസൃതമായി മാറുകയാണെങ്കിൽ പവറും സമയത്തിന് അനുസൃതമായി മാറും ഈ സമയത്തിന്റെ ഇടവേളയിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം ഇത് 2000 മില്ലിജൂൾ അല്ലെങ്കിൽ 2 ജൂൾ ഊർജ്ജത്തിന്റെ ആണ് കിട്ടുക വളരെ ലളിതമായ കണക്കുകൂട്ടൽ പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റെസിസ്റ്ററിനു കുറുകെ ഉള്ള വോൾടേജ് അല്ലെങ്കിൽ റെസിസ്റ്ററിലൂടെ ഉള്ള കറണ്ട് റെസിസ്റ്ററിലേക്ക് പോകുന്ന പവർ നിങ്ങൾക്ക് കണക്കു കൂട്ടാൻ പറ്റണം അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഇടവേളയിൽ റെസിസ്റ്ററിലേക്ക് പോകുന്ന കറണ്ട്